എല്ലാവർക്കും സ്വാഗതം ദുരന്ത മോചനവും മികച്ച രീതിയിലുള്ള പുനർ നിർമ്മിതിയും എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം എന്റെ പേര് രാം സതീഷ് ഞാൻ ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഫാക്കൽറ്റിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കി ഇന്ന് ഞാൻ ഒരു പൈതൃക ഘടകത്തെക്കുറിച്ചും അത് എങ്ങനെ അപകടസാധ്യതയ്ക്ക് വിധേയമാകുന്നുവെന്നും വളരെ മൾട്ടി ഡിസിപ്ലിനറി വീക്ഷണകോണിൽ നിന്ന് എങ്ങനെ വിശകലനം ചെയ്യാമെന്നും റിസ്ക് മാനേജ്മെന്റ് പ്ലാനിനൊപ്പം സംരക്ഷണ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ചർച്ചചെയ്യാൻ പോകുന്നു ഇത് അപകടസാധ്യതയുള്ള റോക്ക് ഷെൽട്ടറുകളെക്കുറിച്ചാണ് ലോകമെമ്പാടും പുരാതന മനുഷ്യന്റെ അഭയം നോക്കിയാൽ അഭയത്തിന്റെ അടിസ്ഥാന രൂപം ഗുഹകളാണ് ഗുഹ വാസസ്ഥലങ്ങളും പാറക്കെട്ടുകളും നിങ്ങൾക്കറിയാം മുൻ മനുഷ്യൻ എങ്ങനെ ജീവിച്ചുവെന്നതിന്റെ ചില തെളിവുകളും അവരുടെ പെയിന്റിംഗുകളുടെ ചില ചിത്രങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണ്ട് അവരുടെ നാടോടികളുടെയോ ഇടയജീവിതത്തിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വേട്ടയാടലിന്റെയോ ചില ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചരിത്രപരമായ രേഖകളിൽ നിന്നും മനുഷ്യജീവിതത്തിന്റെ നരവംശശാസ്ത്രപരമായ വശങ്ങളിൽ നിന്നും ഇന്നത്തെ തലമുറയ്ക്ക് എങ്ങനെ പഠിക്കാമെന്നതിന്റെ ചില പഠനങ്ങൾ ഇവയാണ് അതിനാൽ ഈ ചിത്രം കാണുമ്പോൾ ഞാൻ ഒരു ചരിത്രകാരനെ പോലെ പറയുന്നില്ല ഞാൻ ഒരു വാസ്തുശില്പിയായി ആണ് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ഒരു റിസ്ക് കാഴ്ചപ്പാടിൽ നിന്നുമാണ് ഈ പൈതൃക ഘടകം എങ്ങനെ അപകടസാധ്യതയ്ക്ക് വിധേയമായിരിക്കുന്നു ഒരു മൾട്ടി ഡിസിപ്ലിനറി വീക്ഷണകോണിൽ നിന്ന് എങ്ങനെ നോക്കാം നിങ്ങൾ ഈ ചിത്രം നോക്കുമ്പോൾ ഈ പ്രദേശത്തിന് ചുറ്റും ഏതെങ്കിലും തരത്തിലുള്ള ദ്രാവകമോ ലാവയോ മറ്റോ പറന്നിട്ടുണ്ടെന്നും അത് പരിഹരിക്കപ്പെട്ടുവെന്നും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാണ് ഗൂഗിൾ എർത്ത് മാപ്പിൽ നിന്ന് മുഴുവൻ ഗ്രേഡിയന്റുകളും ചരിവുകളും വശങ്ങളും തണുപ്പിച്ച രീതിയിലൂടെ രൂപം കൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ചില മലഞ്ചെരിവുകളുള്ള അന്തരീക്ഷവും ഒരു താഴ്വര തരത്തിലുള്ള കാര്യങ്ങളും കാണാൻ കഴിയും നിങ്ങൾ കുറച്ച് അടുത്തേക്ക് പോയാൽ അതേ പാറക്കൂട്ടങ്ങൾ ചുറ്റും പർവ്വതങ്ങൾ ഉള്ളിടത്ത് ഇത് കാണപ്പെടുന്നു വളരെ പീഠഭൂമി പർവതനിരകൾ നിങ്ങൾ കൂടുതൽ അടുത്തേക്ക് പോയാൽ പിറ്റാൽഖോറ ഗുഹകൾ കാണാം ഇത് മഹാരാഷ്ട്ര സംസ്ഥാനത്തെ സത്മാല ശ്രേണിയിലെ പശ്ചിമഘട്ടത്തിലാണ് വാസ്തവത്തിൽ രണ്ട് പ്രധാന വ്യക്തികളുടെ ക്രെഡിറ്റ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് പ്രഭാകർ നന്ദഗോപാലിന്റെ ഉറവിടത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് അക്കാലത്ത് അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഒരു സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായിരുന്നു ഈ പ്രോജക്റ്റുകളിലും ദേശ്പാണ്ഡെയുടെ Deshpande's പ്രൊജെക്ടുകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എസ്പിഎ ഭോപ്പാലിൽ മുമ്പ് എന്റെ വിദ്യാർത്ഥിയായിരുന്ന ശിവി ജോഷിയുടെ Shivi Joshi's പക്കൽ നിന്നും ഇത് ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞു നന്ദഗോപാലിന്റെ കൃതികളിൽ നിന്ന് ഞാൻ പഠിക്കുന്ന നിരവധി ഫോട്ടോഗ്രാഫുകളും വിശദാംശങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഗുഹാവാസികളുടെ വാസസ്ഥലമാണ് വാസ്തവത്തിൽ ഇത് ഒരുതരം ഉത്ഖനന കേന്ദ്രം കൂടിയായിരുന്നു ഇവിടെ ഒരു മനുഷ്യവാസ കേന്ദ്രമുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ചുറ്റിക്കറങ്ങാൻ അറിയാവുന്ന നിരവധി നാടോടികളായ ഗോത്രങ്ങളെ കണ്ടെത്താൻ കഴിയും അതിലൊന്ന് ഇത് സാമീപ്യം പേരിൽ മാത്രമല്ല അവർ യാത്ര ചെയ്യുന്നു അവരുടെ നെറ്റ്വർക്കുകൾ വ്യാപാരം നെറ്റ്വർക്കുകൾ പരിശോധിച്ചാൽ മഹിഷ്മതിയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു തിരികെ ഉജ്ജയിനിലേക്ക് പോകുന്നു അത് മധ്യപ്രദേശിലെ ശിലാമേഘങ്ങളിലേക്ക് തിരികെ പോകുന്നു എല്ലോറയിലേക്കും അജന്തയിലേക്കും Ellora Ajanta അങ്ങനെ പോകുന്നു ഇന്ത്യയുടെ മധ്യഭാഗത്തും പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ആളുകൾ എങ്ങനെ സഞ്ചരിക്കുകയും കുടിയേറുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്തുവെന്നതും ഒരു തുറമുഖ നഗരങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്ത് തുറമുഖ നഗരങ്ങളിൽ അവരുടെ വ്യാപനവും ചില താമസമാക്കിയത് എങ്ങനെയെന്നും ഒരു ശൃംഖലയുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലും ഈ ഗുഹ വാസസ്ഥലങ്ങൾക്ക് ചില സാമ്യതകളുണ്ടെന്നതിന്റെ ചില സമാനതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്നതിന് സമാനമായ ചില ചിത്രീകരണങ്ങൾ അതിനാൽ ഔറംഗബാദ് ജില്ലയിലുള്ള പിറ്റാൽഖോറ ഗുഹകളായ ബുദ്ധ സൈറ്റിന്റെ വിന്യാസമാണിത് ഇപ്പോൾ തുടക്കത്തിൽ ഈ സൈറ്റുകൾ ബിസി 250 ന് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് പോകുന്നു അത് ഏകദേശം ബിസി മൂന്നാം നൂറ്റാണ്ടിലേതാണ് അവ പൂർത്തിയായിട്ടില്ല നിങ്ങൾ നോക്കിയാൽ 13 ഓളം ഗുഹകൾ ഖനന പ്രക്രിയയിൽ കണ്ടെത്തിയിട്ടുണ്ട് അവയിൽ ചിലത് പിന്നീട് കണ്ടെത്തി ചിലത് തുടക്കത്തിൽ കണ്ടെത്തി ഘട്ടം ഘട്ടമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് 1 2 3 4 5 6 7 9 6 എ എന്നിവയിൽ എഴുതിയിരിക്കുന്ന ഗുഹ നമ്പറുകളാണ് കൂടാതെ നിങ്ങൾക്ക് ചുവടെയുള്ള ഭാഗവും 10 11 12 13 എന്നിവയും ഉണ്ട് അവ ഒരേ രൂപത്തിലല്ല അവ നിങ്ങൾക്ക് 3 ആം നമ്പറിൽ നിന്ന് കാണാൻ കഴിയുന്ന അതേ വിന്യാസമല്ല ഇത് ഒരുതരം ചൈത്യ രീതിയിലുള്ള കാര്യമാണ് ഇവിടെ വീണ്ടും 13 ലും നിങ്ങൾക്ക് കാണാൻ കഴിയും ബുദ്ധമത ശൈലിയിൽ ഒരുതരം ചൈത്യയും വിഹാരകളും അതേസമയം ഗുഹയുടെ വളരെ പ്രാഥമിക ഘട്ടമായ ഒന്നാം നമ്പർ ബിസി 250 ന് മുമ്പുള്ളതും പിന്നീട് 1 സി 2 3 എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന രണ്ടാം ഘട്ടം ചെറുതും മൂന്നാമത്തേതും ഒരു തരം ചൈത്യയാണ് ഇത് നീളമേറിയ ഇടനാഴി അതിനാൽ അത് വീണ്ടും ബിസി 250 ലേക്ക് തിരിയുന്നു അതേസമയം നാലാം നമ്പർ ഒരു വലിയ ചതുരശ്ര അടിത്തറ ഉള്ളത് ബിസി 250 മുതൽ 200 ബിസി ഇടയിൽ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു അതേസമയം 7 ൽ സമാനമായതും വീണ്ടും ചെറിയ ഘടകങ്ങളുള്ളതുമായ ചെറിയ കമ്പാർട്ടുമെന്റുകളുള്ളതും നാലാം ഘട്ടത്തിൽ ആരംഭിച്ചതും ഏകദേശം 200 280 ബിസി അതുപോലെ തന്നെ 6 2 എ നമ്പറുകളുമുണ്ട് അവയെല്ലാം വീണ്ടും 180 ബിസി 160 വരെ വരുന്നുമറുവശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന 11 12 എന്നീ നമ്പറുകൾ വന്നാൽ അവയ്ക്ക് ബിസി ഒന്നാം നൂറ്റാണ്ടിന്റെയും എ ഡി ഒന്നാം നൂറ്റാണ്ടിലെയും പഴക്കമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എട്ടാം നമ്പർ 9 ഇതും വീണ്ടും 13 ലേക്ക് തിരിയുന്നു ഇത് എ ഡി രണ്ടാം നൂറ്റാണ്ടിലെ കൂടുതൽ പരിഷ്കൃത ഘട്ടമാണ് ബിസി 250 ന് മുമ്പ് മുതൽ എ ഡി രണ്ടാം നൂറ്റാണ്ട് വരെ ഏകദേശം ഇങ്ങനെയാണ് എടുത്തത് അതിനാൽ മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടത്തിലെ സത്മല ശ്രേണിയിൽ ഈ പ്രദേശത്ത് ഈ ഗുഹ വാസസ്ഥലങ്ങൾ എങ്ങനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നതിന്റെ ഒരു തരം ടൈംലൈൻ ആണ് ഇപ്പോൾ ഈ പ്രക്രിയ അവർക്ക് എങ്ങനെ കണ്ടെത്താനാകും തെളിവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അവരുടെ ചിത്രങ്ങൾ എങ്ങനെ ചെയ്തു അവരുടെ തൂണുകളിലെ പ്രതീകാത്മക പ്രാതിനിധ്യം അത് സംഭാവന ചെയ്തവർ അത് സംഭാവന പഠിച്ച ചില ഐക്കണോഗ്രാഫിസ്റ്റുകൾ ഉണ്ട് ഒരു ഭാഷാപരമായ ധാരണയുണ്ട് അതിൽ ഒരു കലാപരമായ ധാരണയുണ്ട് അതിന്റെ ശൈലി വ്യാഖ്യാനം നിങ്ങൾക്കറിയാം ഇപ്പോൾ ഉദാഹരണത്തിന് അവർ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫോട്ടോയിൽ വലതുവശത്ത് പാലിയിൽ എഴുതിയ ചില ചെറിയ വാചകം നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഇത് സ്തംഭം മിത്തദേവയുടെ സംഭാവനയാണെന്ന് പറയുന്നു ഇത് മിത്രദേവയുടെ ആധുനിക പൈത്തൺ പ്രതിഷ്ഠാനമായ പത്തിതാനയിലെ താമസക്കാരനായ ഗാധിക കുടുംബം ഈ ലിഖിതങ്ങൾ യഥാർത്ഥത്തിൽ നിർമാണത്തിന് സ്തംഭം സംഭാവന ചെയ്ത കുടുംബം ആരാണെന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അതിനർത്ഥം അവർ എവിടെ നിന്നാണ് എന്നാണ് ഈ പ്രക്രിയയെല്ലാം വളരെ മികച്ച തെളിവായി മാറിയിരിക്കുന്നു ഏത് തരത്തിലുള്ള കുടുംബങ്ങളാണ് അവിടെ താമസിച്ചിരുന്നത് അവർ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അവർ ഏതുതരം സമയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നിങ്ങനെയുള്ള ഘട്ടങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഏകദേശം കണ്ടെത്താൻ കഴിയും അവ പിറ്റാൽഖോറയിലെ ലിഖിത രേഖകളുടെ 5 ഘട്ടങ്ങൾ ആണെന്ന് അതിലൊന്നാണ് മിതദേവ സംഘകാസ രാജവേജാസ കുടുംബം ധേനുകടക ഭൂട്ടാരഖിത Mitadeva and Sanghakasa Rajavejasa family Dhenukakataka and Bhutarakhita നാലാം ഘട്ടം കന്യാസ്ത്രീ കൻഹദാസ ഘട്ടം അഞ്ച് അവെസേന എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു ഇങ്ങനെയുള്ള ചില തെളിവുകളും ഇതിന് സമാനമായതും നിങ്ങൾക്ക് കാണാം ഇത് പത്തിത്താനയുടെ വസതിയായ സാഗകയും സംഭാവന ചെയ്യുന്നു മുഴുവൻ ഗുഹകളുടെയും വിശാലമായ കാഴ്ച നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ചെറിയ ചെറിയ ഗുഹകളാണ് അവ വളരെ രേഖീയമായ പാറ്റേണിൽ സ്ഥിതിചെയ്യുന്നു ഒപ്പം ഈ പർവത ബിഗ് മൌണ്ടിനടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ശാസ്ത്രത്തിന്റെ ചില പ്രതിരൂപങ്ങളും അതിന്റെ പ്രതീകാത്മക വശങ്ങളും ഉണ്ട് അവിടെ നിങ്ങൾക്ക് ചില ശില്പങ്ങൾ കണ്ടെത്താനാകും ആനയെ ഗർഭധാരണത്തിലേക്ക് പരാമർശിക്കുന്നിടത്ത് കാളയെ നേറ്റിവിറ്റി കുതിര വലിയ പുറപ്പെടലിനെ പരാമർശിക്കുന്നു സിംഹത്തെ നിങ്ങൾക്ക് അറിയാവുന്ന സാക്യയെയും സിംഹയെയും പരാമർശിക്കുന്നു ഈ പ്രതീകാത്മക പദപ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട ചില വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് ബുദ്ധമതത്തിൽ പിത്തൽഖോറയിലെ ബുദ്ധമതത്തിന്റെ മഹായാന ഘട്ടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു മഹായാന ഘട്ടത്തിലെ പെയിന്റിംഗുകളെക്കുറിച്ച് സംസാരിക്കുന്ന ഇടത് വശത്ത് നിങ്ങൾ കാണുന്നത് പോലെയുള്ള സമയത്തെ ചിത്രീകരിക്കുന്ന പെയിന്റിംഗുകളും ഇതാണ് മഹായാന വിഭാഗത്തിന് അനുയായികൾ ഗുഹകൾ കൈവശപ്പെടുത്തിയിരുന്നിടത്താണ് വരച്ചത് എന്നാൽ സമയ വ്യത്യാസവും ബുദ്ധന്റെ ശൈലിയും നിങ്ങൾക്ക് കാണാൻ കഴിയും ബുദ്ധനെക്കുറിച്ചാണ് ഇരുവരും സംസാരിക്കുന്നത് അത് എവിടെയാണ് ഹെയർസ്റ്റൈൽ വ്യത്യസ്തമാണ് അവരുടെ കലാപരമായ രീതിയും വളരെ വ്യത്യസ്തമാണ് വാസ്തവത്തിൽ ആളുകൾ ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ചില ഘട്ടങ്ങൾ ഇത് നിങ്ങൾക്കറിയാവുന്ന ഒരുതരം പിറ്റൽഖോറ സ്റ്റൈലാണ് ഇവയെല്ലാം കാലക്രമേണ വികസിപ്പിച്ചെടുത്ത ചില കഴിവുകളാണ് ഇപ്പോൾ ഗുഹകളെക്കുറിച്ചും ബുദ്ധമത വിഭാഗങ്ങളെപ്പോലുള്ള അവയുടെ ചരിത്രപരമായ വശങ്ങളെക്കുറിച്ചും അവ എങ്ങനെ പ്രതിനിധാനം ചെയ്യപ്പെട്ടു എന്നതിനെക്കുറിച്ചും ഉള്ള ഒരു ചുരുക്കമാണ് എന്നാൽ അതിന്റെ ഭൌമ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും അതിന്റെ ഭൌമശാസ്ത്രപരമായ വശങ്ങളെക്കുറിച്ചും ഞാൻ സ്പർശിക്കും ഇപ്പോൾ പിറ്റാൽഖോറയിൽ കുന്നിന്റെ താഴെയുള്ള ടാച്ചെലെറ്റിക് ബസാൾട്ടിന്റെ വളരെ കട്ടിയുള്ള ഒരു പാളി ശ്രദ്ധിക്കുന്നു പ്രൊജക്റ്റ് പ്ലാൻ അനുസരിച്ച് ഖനനത്തിന്റെ വ്യാപ്തി നിയന്ത്രിച്ചിരിക്കുന്നു കാരണം ഇത് ഈ ബസാൾട്ടിനെക്കുറിച്ചാണ് ഒരു ഖനനം തുടരുമ്പോൾ അത് കഷണങ്ങളായി വിഘടിക്കുമ്പോൾ അത് വളരെ മൃദുവായ ഒരു വസ്തുവായി മാറുന്നു അങ്ങനെയാണ് തെളിവുകൾ നഷ്ടപ്പെടാനുള്ള അവസരമുണ്ടാകുന്നത് ചില തെളിവുകൾ നഷ്ടപ്പെടും ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരുതരം ലാവയാണ് അവിടെ നമ്മൾ സംസാരിക്കുന്നത് Aa ആണ് ഇത് ബസാൾട്ടിക് ലാവയാണ് ഇതിന് ഒരു പരുക്കൻ അല്ലെങ്കിൽ മാലിന്യ പ്രതലത്തിന്റെ സ്വഭാവമാണ് ഈ ലാവ ബ്ലോക്കുകളിൽ ഇത്തരത്തിലുള്ള പരുക്കുകളിൽ നിന്നും ക്ലിങ്കർ വേർതിരിച്ചെടുക്കുന്നു ഉപരിതല ലാവയെ Aa എന്ന് വിളിക്കുന്നു ഇത് വളരെ സ്മൂതും സർഫസ് ആണ് ഇത് വേർ പിരിയാത്ത ലാവാ കൂടാതെ ബാസാൾട്ട് അടങ്ങിയ ലാവ ഉപരിതലം വളരെ സ്മൂത് ആണ് ബില്ലൊവ്യ് അണ്ടുലേറ്റിംഗ് ഒരു റോപ്പി billowy undulating or a ropy ഉപരിതലം ഇതിനെ പഹൊഹേ എന്നു വിളിക്കുന്നു ഇത് ഒരു ഹവായിയൻ അർത്ഥം ആണ് മിനുസമാർന്നതും പൊട്ടാത്തതുമായ ലാവ എന്ന് വിളിക്കുന്നു മെർക്കുറി താഴേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് വളരെ മിനുസമാർന്ന ദ്രാവകത്തിൽ ഒഴുകുന്നു ഇത്തരത്തിലുള്ള ഉരുകിയ ലാവ തണുക്കുമ്പോൾ അവിടെയാണ് ഘടനാപരമായ സന്ധികൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളതും ചില പൊള്ളയായ ഇടങ്ങളും വികസിപ്പിച്ചെടുക്കുന്നതും ഘടനാപരമായ രൂപങ്ങൾ വികസിപ്പിക്കുന്നതും അവിടെയാണ് പൊള്ളയായ ഇടങ്ങളിലാണ് ഒടുവിൽ മനുഷ്യൻ അവന്റെ അഭയകേന്ദ്രങ്ങൾ സൃഷ്ടിച്ചത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നിനു മുകളിലായി തിരശ്ചീന പാളികളുടെ പാളികളാണ് അതിനാൽ ഈ പാളികൾ ഈ തട്ടുകളെക്കുറിച്ചും സംസാരിക്കുന്നു ഒരു കൂട്ടം ലാവ ഇറങ്ങി ക്രമേണ മറ്റൊരു സെറ്റ് ലാവയും മറ്റൊരു സെറ്റ് തണുക്കുമ്പോഴേക്കും മറ്റൊരു സെറ്റ് വന്നു അതിനാൽ ഈ തിരശ്ചീന പാളി ഒന്നിനുപുറകെ ഒന്നായി വികസിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയാണ് ഗുഹ ഖനനത്തിന് അനുയോജ്യമായ പാറയല്ലാത്ത ഈ ടച്ചലെറ്റിക് ബസാൾട്ട് Tacheletic Basalt അതിന്റെ രാസഗുണങ്ങൾ ഈർപ്പവും ആയി കുത്തനെ പ്രതികരിക്കുകയും കഷണങ്ങളായി വിഘടിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു ഉത്ഖനന പ്രക്രിയ നടത്തുന്ന നിമിഷം അത് ക്രമേണ നിങ്ങൾക്കറിയാവുന്ന ചെറിയ വെഡ്ജ് ആകൃതിയിലുള്ള കഷണങ്ങളായി മാറുന്നു ഇത് ഉത്ഖനന വെല്ലുവിളികളിലെയും ഒരു പ്രധാന വശമാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വസ്തുക്കൾ റോപ്പി ഘടനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന മറ്റൊരു രൂപമാണിത് ഇവിടെയാണ് ഇത് വീണ്ടും ഒരു പഹോഹോ തരം റോപ്പി ഫോർമാറ്റിന്റെ ഒരു പ്രവണതയിലേക്ക് വളച്ചൊടിക്കുന്നു കൂടാതെ സ്ഫെറോയിഡൽ കാലാവസ്ഥയിൽ സമയം കടന്നുപോകുമ്പോൾ നിങ്ങൾക്ക് കാണാനും കഴിയും കാരണം മുകളിലെ പാളികളിലെ ഈ പാളികൾ ചിപ്പ് വഴി ഒരു ചിപ്പ് പോലെ വരുന്നത് തുടരുന്നു ഇത് വീണ്ടും ഒരു സ്ഫെറോയ്ഡൽ രീതിയിലാണ് ഇതിനെ സ്ഫെറോയ്ഡൽ എന്ന് വിളിക്കുന്നു കാലാവസ്ഥ ഇടതുവശത്ത് മുഴുവൻ പാറയും എങ്ങനെ രൂപപ്പെട്ടുവെന്നും കാലാവസ്ഥാ വ്യതിയാനം കാരണം അത് എങ്ങനെ താഴുന്നുവെന്നതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ കാണുന്നു വലതുവശത്ത് നിങ്ങൾ കാണുന്നത് ഒരുതരം ബോലെ ബെഡ്ഡുകളാണ് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഡെക്കാൻ ട്രാപ്പിൽ തുടർച്ചയായി ഈ ലാവാ പ്രവാഹങ്ങൾ എങ്ങനെ കുടുങ്ങിയിരിക്കുന്നു എന്നതിന്റെ സമയ ഇടവേളകൾ നോക്കുന്നു സമയം കടന്നുപോകുന്തോറും ചില ജലാശയങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചരിവിനും ഗ്രേഡിയന്റിനും അനുസൃതമായി അവ പ്രകൃതിദത്ത രൂപത്തിൽ എത്തിക്കുന്നു എന്നാൽ പിന്നീട് അത് യുഗങ്ങളായി തുടരുന്നു ആളുകൾ കണ്ടെത്തുന്നതുവരെ ആരും അത് തിരിച്ചറിഞ്ഞിട്ടില്ല അത് പതിറ്റാണ്ടുകളായി അവിടെയുണ്ട് ഇപ്പോൾ വെള്ളം പിന്തുടരുന്നു ഗുഹകൾക്കുള്ളിൽ ഒഴുകുന്നത് ആരംഭിച്ചു ഇത് ഒരു വശമാണ് ഇപ്പോൾ ചെയ്തത് പുരാവസ്തു ഗവേഷകരുടെ സംഘമാണ് അവർ യഥാർത്ഥത്തിൽ മാപ്പ് ചെയ്തതാണ് വിള്ളലുകളുടെ വിശകലനം ഉൾപ്പെടെ ഗുഹകളുടെ മുഴുവൻ സെറ്റുകളും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയാണ് അവർ ഗുഹകളുടെ സീലിംഗിന്റെ ജിയോളജിക്കൽ മാപ്പിംഗിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത് ചൈത്യ ഇതിൽ എവിടെയൊക്കെയാണ് വിള്ളലുകൾ വരുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതെല്ലാം വിഭാഗങ്ങൾ അവർ അപകടസാധ്യതകളുടെ വിഭാഗങ്ങൾ തരംതിരിച്ചിട്ടുണ്ട് വിള്ളലിന്റെ സ്വഭാവത്തെയും സ്ഥിരതയിൽ നിന്ന് ഏറ്റവും അസ്ഥിരമായ നിലയെയും ആശ്രയിച്ച് അങ്ങനെയാണ് അവർ ക്രാക്ക് കാറ്റഗറി 1 2 3 4 5 സമനിലയിലാക്കിയത് അവിടെയാണ് അവർ ഈ അപകടസാധ്യതകളെ തരംതിരിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ വീണ്ടും അപകടസാധ്യതയുടെ വിവിധ വശങ്ങൾ എന്താണെന്ന് അവ വീണ്ടും വർഗ്ഗീകരിക്കുന്നു ചെറുതായി അന്തരീക്ഷസമ്പർക്കം ഉള്ള വെസിക്കുലാർ ബസാൾട്ടും വാട്ടർ സീപ്പേജ് സോണുകളുമാണ് ഇവയുടെ കൂടുതൽ ഡോട്ട് ഇനങ്ങൾ കൂടാതെ തകർന്ന സീലിംഗിന്റെ അരികിൽ ഉള്ള മേൽക്കൂര ഇവിടെയാണ് അവർ ശ്രമിക്കുന്നത് ഈ വശങ്ങളെല്ലാം വീണ്ടും തരംതിരിക്കാൻ കൂടാതെ വിള്ളലുകൾ സീലിംഗ് ലെവലിൽ ഒരു തിരശ്ചീനത്തിൽ മാത്രമല്ല ഗുഹയുടെ ഘടനയിലുടനീളം തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്നിടത്ത് ഈ ലംബ വിള്ളലുകൾ എങ്ങനെയാണ് വരുന്നത് ഇത് ലഭിച്ചതിന് ശേഷം എങ്ങനെ ഇത് രേഖപ്പെടുത്താമെന്നും അവ ഒരു സ്പേഷ്യൽ പോയിന്റിൽ നിന്ന് മാപ്പ് ചെയ്ത് എങ്ങനെ വിശകലനം ചെയ്യാമെന്നും ഒരു ചെറിയ വിശകലനം മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുള്ളൂ അതിനുള്ള മൂലകാരണങ്ങൾ അതിലേക്കുള്ള ദൌതിക വശങ്ങൾ എവിടെ വെള്ളം ഒഴുകുന്ന പ്രശ്നങ്ങൾ എവിടെ സീലിംഗ് തകർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ തൂണുകൾ തകർന്നിട്ടുണ്ടോ തറയുടെ വശം ചിപ്പിംഗ് കാരണം കാലാവസ്ഥാ വശങ്ങൾ അല്ലെങ്കിൽ മഴക്കാലത്ത് ഇത് എങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ഈ ഡോക്യുമെന്റേഷനുകളെല്ലാം ചെയ്തു 1954 മുതൽ 2008 വരെ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഗണം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ സമയദൈർഘ്യം കാണാം പക്ഷേ വളരെ പരിമിതമായ ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും എന്നാൽ പിന്നീട് ഒരാൾ മനസ്സിലാക്കണം ഇത് ഒരു സാധാരണ കെട്ടിട പദ്ധതിയല്ല ഇത് ഒരു സംരക്ഷണ പദ്ധതിയാണ് എന്ന് അതിനാൽ സാധാരണയായി ഇത് സമയമെടുക്കും കാരണം ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഒരു ചെറിയ സ്കാർഫോൾഡിംഗ് ചെയ്യണമെങ്കിൽ പോലും എത്രത്തോളം വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കാരണം 1954 55 കാലഘട്ടത്തിലെ തെളിവുകൾ നശിപ്പിച്ചേക്കാം ഇത് വലിയ പാറകളും അവശിഷ്ടങ്ങൾ ആലും പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു അവർ അത് വൃത്തിയാക്കാൻ തുടങ്ങി അതിനുശേഷം ഇതിനകം വീണുകിടക്കുന്നതും തകർന്നതുമായ പാറയുടെ ചില ഭാഗങ്ങൾ നീക്കംചെയ്യുകയും പ്രദേശം നിരപ്പാക്കുകയും ചെയ്തു 1955 56 കാലഘട്ടത്തിൽ കുന്നിൻ മുകളിൽ നിന്ന് ഗുഹകളിലേക്കുള്ള പടികൾ നിർമിച്ചതും പ്രധാന ചൈത്യയോട് ചേർന്നുള്ള വിഹാരയിലെ സീലിംഗിൽ നിന്നും മറ്റ് അവശിഷ്ടങ്ങളിൽ നിന്നും വീണ കൂറ്റൻ പാറകൾ നീക്കം ചെയ്തതും ഗുഹകളുടെ ഒരു കൂട്ടത്തെ ബാധിച്ചിട്ടില്ല അതിനാൽ 57 ലും 58 ലും ചൈത്യ വിഹാര ഗുഹകൾക്ക് മുന്നിലുള്ള ക്ലിയറൻസ് ചില വിശിഷ്ഠ സവിശേഷതകളും ശില്പങ്ങളും വെളിപ്പെടുത്തുന്നു അവിടെയാണ് സിംഹത്തെയും കാളയെയും കുതിരകളെയും ഞാൻ കാണിച്ചുതന്നത് 58 59 ൽ ഗുഹ 4 വീണ്ടും രണ്ട് ആന കാരിയറ്റൈഡുകൾ കൂടി വെളിപ്പെടുത്തി അത് ഓരോന്നായി അവർ കണ്ടുപിടിക്കാൻ തുടങ്ങി അവർ ആരംഭിച്ചു അവർ വീണ്ടും ആരംഭിച്ചു 1959 60 ൽ ഈ സമയം അവശിഷ്ടങ്ങൾ എടുക്കാൻ പോലും 6 വർഷമാണ് എടുത്തത് 1 മുതൽ 4 വരെയുള്ള ഗുഹയിൽ നിന്ന് നീക്കം ചെയ്യാനായി എടുത്തത് അങ്ങനെയാണ് അവശിഷ്ടങ്ങൾ നീക്കംചെയ്യാൻ മാത്രമുള്ള ആറ് വർഷത്തെ പദ്ധതി 60 61 ൽ വെള്ളം സംഭരിക്കുന്നതിനായി ഒരു പാറ മുറിച്ച കുഴി അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും ഗുഹയുടെ മുകളിൽ പാറ മുറിച്ച അഴുക്കുചാൽ ഖനനം ആരംഭിക്കുകയും ചെയ്തു ആ രീതിയിൽ അവർ കുളവും ജല സംഭരണവും 1995 ലും ആരംഭിച്ചു ഇവിടെയാണ് അവർ ഒരു മിതമായ ഉരുക്ക് ഫുട്ബ്രിഡ്ജിനെക്കുറിച്ച് തുടങ്ങിയത് കാരണം വിനോദസഞ്ചാരികൾ താഴേക്ക് കൂടുതലായി ചൊല്ലുവാൻ തുടങ്ങി മാത്രമല്ല അവർ തെളിവുകൾ നശിപ്പിക്കാതെ അവരെ ചാനൽ ചെയ്യാനും ചിലതരം ആക്സസ് നിലനിർത്താനും അതേസമയം 2001 ലും പിറ്റൽഖോറ ഗുഹകളുടേയും പരിസരങ്ങളുടേയും ഭൂമിശാസ്ത്രപരവും ജിയോ ടെക്നിക്കൽ ജിയോ ഫിസിക്കൽ ജിയോ എൻവയോൺമെന്റൽ പഠനങ്ങളുടെ ചിലവുകൾക്കായി ജിഎസ്ഐ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് നിക്ഷേപ പ്രവർത്തനങ്ങൾ നൽകുന്നു അതേസമയം ഇവിടെ ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രമല്ല സാങ്കേതികതയുടെ മറ്റൊരു മാനം അതിലേക്ക് വരുന്നു ഇപ്പോൾ ഇത് ഒരു സംരക്ഷണ വാസ്തുശില്പിയുടെ കഥയല്ല ഇത് ഒരു ദൌത്യം മാത്രമല്ല ഈ വിശകലനം ജിയോ ടെക്നിക്കലുമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ജിയോ എൻവയോൺമെന്റൽ പഠനങ്ങളും അതിൽ സഹകരിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള ഇംപാക്റ്റ് വശങ്ങൾ മനസിലാക്കുന്നതിനായി അവ ഇപ്പോൾ അടിസ്ഥാനമായിത്തീരുന്നു അത് അപകടസാധ്യതയുള്ള കാര്യമാണ് ഇപ്പോൾ ഈ വിശകലനങ്ങളെല്ലാം പിന്തുടർന്ന് ഗുഹകൾക്കുള്ളിൽ എന്ത് തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തി അതിനാൽ മേൽക്കൂരയുടെ അരികുകളും ലംബ വശത്തിന്റെ ഘടനയും മേൽക്കൂരയുടെ വശവും എങ്ങനെ ലയിപ്പിക്കുന്നുവെന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന് വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചു കൂടാതെ അത് എപ്പോൾ വേണമെങ്കിലും തകരാൻ സാധ്യതയുണ്ട് അതിനാൽ അവിടെയാണ് അവർ അരികുകളിൽ ചിലതരം സംരക്ഷണം സംവിധാനം നൽകാൻ തുടങ്ങിയത് അതുവഴി ഘടനയുടെ ബാലൻസും നിങ്ങൾക്കറിയാം കൂടാതെ നിങ്ങൾക്ക് ഇതിനകം കാണാനാകുന്ന നിരകൾ എന്തൊക്കെയാണെന്നും ഇപ്പോൾ അവ വീണ്ടും രൂപകൽപ്പന ചെയ്യുകയും സീലിംഗിന് ഒരുതരം സംരക്ഷണം നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സ്കാർഫോൾഡിംഗ് പ്രക്രിയ കാണാൻ കഴിയും കാരണം സ്കാർഫോൾഡിംഗ് പ്രക്രിയ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് കാരണം നിങ്ങൾ മതിൽ തട്ടുന്ന ഒരു സാധാരണ കെട്ടിട പദ്ധതി പോലെയല്ല നിങ്ങൾ അതിൽ ഒരു കുഴിയുണ്ടാക്കി അതിനുശേഷം അതിനൊരു ഒരു സംരക്ഷണം സംവിധാനം നൽകുന്നു പക്ഷേ ഇവിടെ സംരക്ഷണ പദ്ധതിയിൽ അത് അങ്ങനെ പ്രവർത്തിക്കുന്നില്ല കാരണം എല്ലാ തെളിവുകളും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് അത് മനസിലാക്കേണ്ടത് വളരെ നിർണായകമാണ് പുനപ്രക്രിയ ഇങ്ങനെയാണ് ഫ്ലോറിംഗ് ഭാഗത്ത് ചില സമയങ്ങളിൽ അത് ചിപ്പ് ഔട്ട് ചെയ്തു അവിടെയാണ് അവർ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലോറിംഗ് പുനഃസ്ഥാപനം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ വിള്ളലുകൾ ഉണ്ടായ ചില സംരക്ഷണ സംവിധാനങ്ങളും അവർക്ക് നൽകി കുറച്ച് സമയത്തിന് ശേഷം ഇത് ഭാരം വഹിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് അവർ ചിലതരം കൂറ്റൻ കൊത്തുപണികൾ നൽകാൻ തുടങ്ങിയത് മതിൽ കൊത്തുപണികളല്ല അത് ഒരുതരം വരണ്ട കല്ല് മതിലാണ് അവയ്ക്ക് ചെറിയ പിന്തുണ നൽകാൻ കഴിയും അതിനാൽ അധിക മെറ്റീരിയലുകളോ റെൻഡറോ നൽകാതെ തന്നെ ഒരു കല്ല് മതിലായി സൂക്ഷിക്കുക കൂടാതെ പെയിന്റിംഗുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അവയുടേയും അപകടസാധ്യത പരിശോധിക്കുന്നു അതിനാൽ ഈ പെയിന്റിംഗുകൾ എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവിടെയാണ് രസതന്ത്രത്തിൽ നിന്നുള്ളവരുമായി പുരാവസ്തു ഗവേഷകരിൽ നിന്നുള്ളവരുമായി നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് കാരണം ഒരു ഭൌതിക ശാസ്ത്രജ്ഞരും അതിൽ പങ്കാളികളാകാമെന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട് നമുക്ക് അവയെ എങ്ങനെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാം എന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ചെറിയ കനാലാണ് പക്ഷേ ടോപ്പോഗ്രാഫിക് വശങ്ങളെക്കുറിച്ച് സമഗ്രമായ ധാരണയും ജലത്തിൻറെ നീരൊഴുക്ക് എവിടെയാണ് വരുന്നതെന്ന് മനസിലാക്കിയതിനുശേഷം അതിന്റെ മൂലകാരണം അവർ മനസ്സിലാക്കി വെള്ളം ഗുഹയിൽ മാത്രമല്ല അത് പർവതത്തിനപ്പുറത്ത് എവിടെയോ ആണ് അതിനാൽ ഈ ജലം എങ്ങനെ വഴിതിരിച്ചുവിടാമെന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരുതരം ചാനൽ അവർ നിർമ്മിക്കാൻ തുടങ്ങി അതിലൂടെ ഗുഹകളിലെ വെള്ളം ഒഴുകുന്നത് സംരക്ഷിക്കാൻ കഴിയും ഇത് വളരെ ചെറിയ ഇടപെടലായിരിക്കാം പക്ഷേ ഈ പൈതൃക ഘടനകളെ സംരക്ഷിക്കുന്നതിന് സമഗ്രമായ വിശകലനം നടത്തേണ്ടതുണ്ട് വാസ്തവത്തിൽ ഈ പ്രത്യേക ഘടനയിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ച പണ്ഡിതന്മാരിൽ ഒരാൾ എംഎൻ ദേശ്പാണ്ഡെ M Deshpande ഈ പിറ്റൽഖോറയുടെ പല പേരുകൾ ഉണ്ടായിരുന്നിടത്ത് പിത്താൽഖോറയ ചിലേനി ഖോറ Pithalkhoraya ChiLeni Khora ഒരു മലയിടുക്ക് ഒരു തോട്ടം അല്ലെങ്കിൽ ഗ്ലൈൻ സിൻക്ലെയർ ലെവി എന്നിവ ബ്രസൻ ഗ്ലൈൻ ബുദ്ധമതത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ബോധി വൃക്ഷമായ ഫികസ് റിലിജിയോസയാണ് പിപാൽ ഖോറ നിങ്ങൾക്കറിയാം അങ്ങനെയാണ് ധാരാളം വിഷയങ്ങൾ ഒത്തുചേരുന്നതെന്നും അപകടസാധ്യതയെക്കുറിച്ചും അവ സംരക്ഷിക്കുന്നതിലും അവ പ്രവർത്തിക്കുന്നു പക്ഷേ നിങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതും ഒരു പ്രധാന വശമാണ് ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി